നമ്മുടെ രാജ്യത്തെതന്നെ അത്യാധുനിക സൌകര്യങ്ങൾ ഉള്ള ഒരു വിർച്വൽ റിയാലിറ്റി ലാബ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നു ഇത് ഐഐടി ഖരഗ്പൂരിലെ ഇൻഡസ്ട്രിയൽ ആൻഡ് സിസ്റ്റംസ് എഞ്ചിനീയറിംഗ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് അതിനാൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സിസ്റ്റംസ് എഞ്ചിനീയറിംഗ് വിവരിച്ചുകൊണ്ട് കുറച്ച് വാക്കുകൾ സംസാരിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു നന്ദി പ്രൊഫസർ മിശ്ര രൂപീകൃതമായതാണ് ഇൻഡസ്ട്രയിൽ

നന്ദി നന്ദി പ്രൊഫസർ മൈതി ഈ ലാബിന്റെ അടിസ്ഥാന സൌകര്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ഇവിടെയുള്ള പ്രധാന ഘടകങ്ങളെ കുറിച്ച് വിശദീകരിക്കാമോ തീർച്ചയായും വെർച്വൽ റിയാലിറ്റി ഉപകരണങ്ങൾ എന്നിവ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് ട്രാക്ക് ഉണ്ട് അതിനാൽ ഇത് എല്ലാ വിരലുകളുടെയും അതുപോലെ കൈത്തണ്ടകളുടെയും ചലനങ്ങൾ പിടിച്ചെടുക്കും ഏതൊക്കെ തരത്തിലുള്ള സെൻസറുകൾ ഉണ്ട് ഇത് പീസോ ഇലക്ട്രിക് സെൻസറുകളാണ് അതുപോലെ ഞങ്ങളുടെ പക്കൽ ഈ ഹാൻഡ് ട്രാക്കർ എന്താണെന്നുമെല്ലാം അറിയാൻ സഹായിക്കുന്നു ഇതുകൂടാതെ ഞങ്ങൾക്ക് ഒരു പ്രത്യേക ഹെഡ് ട്രാക്കർ എങ്ങനെ ഉപയോഗിക്കാം എന്നെല്ലാം ഞാൻ കാണിച്ചുതരാം എച്ച്എംഡി അടിസ്ഥാന ഉപകരണങ്ങളാണ് വെർച്വൽ റിയാലിറ്റിയിലെ ധരിക്കുമ്പോൾ പുറത്തുള്ളവയൊന്നും കാണേണ്ടതായില്ലെന്ന് നിങ്ങൾക്കറിയാം വികസിപ്പിച്ചെടുത്ത എല്ലാ ചുറ്റുപാടുകളും അതിനുള്ളിൽ കാണാനും അനുഭവിക്കാനും കഴിയും നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ ആ ചുറ്റുപാടിൽ മുഴുകിയിരിക്കുകയാണെന്നും ആ ചുറ്റുപാടിലൂടെ നടക്കുകയാണെന്നും അനുഭവപ്പെടും ഇതുകൂടാതെ ഞങ്ങൾക്ക് ഒരു ഐ ട്രാക്കർ ഉള്ള ഉപകരണങ്ങൾ നന്ദി ക്രാന്തി വ്യാവസായ പശ്ചാത്തലത്തിൽ വെർച്വൽ റിയാലിറ്റിയുടെ ചില പ്രയോഗങ്ങളെക്കുറിച്ചു സംസാരിക്കാമോ അതിനാൽ വെർച്വൽ റിയാലിറ്റിയിലെ വളരെ വിശാലമാണ് ഇത് പ്രധാനമായും ഖനനം ആരോഗ്യ സംരക്ഷണം നിർമ്മാണം എന്നീ വ്യവസാങ്ങളിൽ ഉപയോഗിക്കുന്നു ഖനന വ്യവസായത്തിൽ ഭൂഗർഭ കൽക്കരിഖനി തൊഴിലാളികൾ വളരെ സങ്കീർണ്ണമായ പ്രദേശത്തേക്ക് പോകുമ്പോൾ അവരെ പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കുന്നു ആ ഭൂഗർഭ കൽക്കരി ഖനിക്കുള്ളിൽ അവർ അഭിമുഖീകരിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നു അതുപോലെ വെർച്വൽ റിയാലിറ്റിയുടെ കാറിന്റെയും യാത്രക്കാരുടെയും സുരക്ഷാനിലവാരം പരിശോധിക്കുന്നതിനായി വിവിധ ആക്സിഡന്റ് സിമുലേഷൻ സഹായത്തോടെ അടിയന്തര ഒഴിപ്പിക്കൽ സാഹചര്യങ്ങളെ എങ്ങനെ നേരിടാമെന്ന് പരിശീലിപ്പിക്കുന്നു ശരി ഇനി ഞങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്ന തരത്തിൽ നിങ്ങളുടെ പക്കലുള്ള എന്തെങ്കിലും ഒരു സിനാരിയോ കാണിക്കാമോ തീർച്ചയായും ഞങ്ങൾ നിലവിൽ ഒരു ആക്സിഡന്റ് ഡെവലപ്മെന്റ് സിനാരിയോയിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ജോലിസ്ഥലം ദൃശ്യവൽക്കരിക്കാൻ സാധിക്കും ഇത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഞങ്ങൾ വികസിപ്പിച്ചെടുത്തതാണ് അതിനായി ഞങ്ങൾ 3D മോഡലുകൾ ഉപയോഗിച്ചു 3D മോഡലിംഗിന് ചെയ്തു

അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻഇത് മിസ്റ്റർ ക്രാന്തിക്കുള്ളിൽ താങ്കൾക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത് ഈ എച്ച്എംഡി

ഒരു ഡെസ്ക്ടോപ്പിൽ ഇതാണ് എന്നും എനിക്ക് കാണാൻ കഴിയും എനിക്ക് ഒരു ഓപ്പറേറ്റർ നടത്തും ആ പരിസ്ഥിതിയിൽ എനിക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു നന്ദി മിസ്റ്റർ ക്രാന്തി യഥാർത്ഥത്തിൽ ശസ്ത്രക്രിയ നടത്തുന്നതിന് മുമ്പ് തന്നെ പരിശീലിക്കുന്നതിന് ഇവിടെയുള്ള വിആർ ചോദിക്കാം തീർച്ചയായും ഇതിന് നല്ല വിശദീകരണം നൽകിയതിന് ക്രാന്തിക്ക് ചെയ്യുന്നു അതിനാൽആദ്യം ഇമേജ് ജനറേഷൻ സംവിധാനം ഇവയെല്ലാം ഉപയോഗിച്ച് നമുക്ക് ആ പരിസ്ഥിതിയിൽ മുഴുകിയിരിക്കാൻ സാധിക്കുന്നു മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പ്രോഗ്രാം പരിശീലന പോയിന്റിലും ഉപയോഗിക്കുന്നു വയലന്റ് ഗ്യാസ് ഉപയോഗിക്കാം ഞങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ നൽകിയതിന് പ്രൊഫസർ മൈതിക്ക് ഇത് ഉപയോഗിക്കാം അണ്ടർവാട്ടർ വർക്കുകൾ ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു വെർച്വൽ റിയാലിറ്റിക്കായി ചോദിക്കാം 3D ലേസർ സ്കാനർ ലഭ്യമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു നിങ്ങൾ മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് സങ്കീർണ്ണമായ രൂപങ്ങളുണ്ടെങ്കിലോ അത് മോഡൽ ചെയ്യാൻ സാധിക്കും പോയിന്റ് ക്ളൌടിനെ നിർമിക്കാൻ സാധിക്കുന്നു വളരെ നന്ദി യഥാർത്ഥ വ്യാവസായിക അന്തരീക്ഷം സൃഷ്ടിക്കാൻ 3 പോയിന്റ് ക്ളൌടുകൾ ഉപയോഗിച്ച് 3D പരിസ്ഥിതിയും നിർമിക്കുന്നു